ഒരു MOS ട്രാൻസിസ്റ്ററിന്റെ കറന്റ് വോൾട്ടേജ് ബന്ധത്തെ വിവരിക്കുന്ന സമവാക്യങ്ങൾ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ആ സ്വഭാവസവിശേഷതകൾ വരച്ച് അവ എന്താണെന്ന് നന്നായി മനസ്സിലാക്കാം ഒരു ഉദാഹരണമായി ഞാൻ ഒരു MOS ട്രാൻസിസ്റ്റർ എടുക്കും അതിന്റെ mu n C ox ഉൽപ്പന്നം ഓരോ വോൾട്ട് സ്ക്വയറിലും നൂറ് മൈക്രോആമ്പിയർ ആണ് ഈ W ബൈ L W എന്നത് ട്രാൻസിസ്റ്ററിന്റെ ചില ഭൌതിക മാനങ്ങളാണ് L എന്നത് മറ്റൊരു ഭൌതിക മാനമാണ് ഈ അനുപാതം തന്നെ അളവില്ലാത്തതാണ് ഈ അനുപാതം ഒന്നായി കണക്കാക്കും അതിനാൽ കറന്റ് ഘടകം K n ഇത് mu n C ox W ബൈ L ഇത് ഒരു വോൾട്ട് സ്ക്വയറിന് നൂറ് മൈക്രോആമ്പിയർ ആണ് ഈ അളവുകൾ അർത്ഥവത്താണ് കാരണം കറന്റ് ലഭിക്കുന്നതിന് നമ്മൾ കറന്റ് ഘടകത്തെ വോൾട്ടേജിന്റെ വർഗ്ഗവുമായി ഗുണിക്കുന്നു അതിനാൽ കറന്റ് ഘടകത്തിന് തന്നെ വോൾട്ട് സ്ക്വയർ കൊണ്ട് ഹരിച്ച വൈദ്യുതധാരയുടെ അളവുണ്ട് ഇപ്പോൾ ഞാൻ ത്രെഷോൾഡ് വോൾട്ടേജ് VT ഒരു വോൾട്ടായി എടുക്കും സ്വഭാവസവിശേഷതകൾ ചിത്രീകരിക്കുന്ന ചില സ്കെച്ചുകൾ നിർമ്മിക്കുന്നതിനുള്ള ചിത്രീകരണത്തിന് വേണ്ടി മാത്രമാണിത് ഇപ്പോൾ നമുക്ക് സ്കെച്ച് ചെയ്യേണ്ട സ്വഭാവസവിശേഷതകൾ എന്തൊക്കെയാണ് MOS ട്രാൻസിസ്റ്റർ രണ്ട് പോർട്ട് ആണ് ഒരു ഡ്രെയിൻ കറന്റ് ID ഉണ്ട് ഗേറ്റ് കറന്റ് IG കൂടാതെ ഇവ ഓരോന്നും രണ്ട് പോർട്ട് വോൾട്ടേജുകളുടെ VGS ഗേറ്റ് സോഴ്സ് വോൾട്ടേജിന്റെ പ്രവർത്തനമായി സ്കെച്ച് ചെയ്യണം കൂടാതെ VDS ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ആണ് ഇപ്പോൾ ഗേറ്റ് കറന്റ് പൂജ്യമാണ് അതിനാൽ അവിടെ സ്കെച്ച് ചെയ്യാൻ ഒന്നുമില്ല അതിനാൽ നമ്മൾ ID വേഴ്സസ് VGS എന്നതിന്റെയും ID വേഴ്സസ് VDS എന്നതിന്റെയും പ്ലോട്ടുകൾക്കായി നോക്കണം ഇപ്പോൾ ID വേഴ്സസ് VGS എന്നത് VDS ന്റെ സ്ഥിരമായ മൂല്യത്തോടുകൂടിയതായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് VDS ന്റെ മറ്റൊരു സ്ഥിരമായ മൂല്യം തിരഞ്ഞെടുത്ത് പ്ലോട്ടിംഗ് തുടരാം അതുപോലെ ID വേഴ്സസ് VDS എന്നത് VGS ന്റെ സ്ഥിരമായ മൂല്യത്തിനായിരിക്കും തുടർന്ന് VGS ന്റെ വ്യത്യസ്ത സ്ഥിരാങ്ക മൂല്യങ്ങൾക്കായി നിങ്ങൾ അത് പ്ലോട്ട് ചെയ്യുക അതിനാൽ നമുക്ക് ഇത് ചെയ്യാം അതിനാൽ ഞാൻ VGS യ്ക്കെതിരായ ID എടുക്കട്ടെ ഈ അവസരത്തിൽ പതിവുപോലെ നിങ്ങൾ വീഡിയോ താൽക്കാലികമായി നിർത്തി ഞാൻ നൽകിയ സ്ഥിരമായ മൂല്യങ്ങൾക്കായി നിങ്ങൾ സ്വയം സ്വഭാവസവിശേഷതകൾ വരയ്ക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം നിങ്ങൾക്കത് ഞാൻ ഇവിടെ വരച്ചതുമായി താരതമ്യം ചെയ്യാം അതുവഴി ഈ കാര്യങ്ങൾ ശരിയായി ചെയ്യാൻ നിങ്ങൾക്ക് പരിശീലനം നൽകും അതിനാൽ VGS ഇത് വോൾട്ടിലാണ് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ പറയാം ഇപ്പോൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഒരു വോൾട്ടായ ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ ചെറുതായിരിക്കുമ്പോൾ കറന്റ് പൂജ്യമാണെന്ന് നമുക്കറിയാം അതിനാൽ ഇത് വരെ കറന്റ് പൂജ്യമായിരിക്കും അതിനാൽ ഈ ത്രെഷോൾഡ് വോൾട്ടേജ് ഒരു വോൾട്ട് ആണ് ഇപ്പോൾ ഇതിനപ്പുറം വൈദ്യുതധാര VDS നെയും ആശ്രയിച്ചിരിക്കും എന്നാൽ VDS സംഭവിക്കുകയാണെങ്കിൽ VGS മൈനസ് VT നേക്കാൾ കൂടുതലാണ് ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ മേഖലയിലാണെങ്കിൽ കർവ് VDS ൽ നിന്ന് സ്വതന്ത്രമായിരിക്കും ഞാൻ ആ കേസ് തിരഞ്ഞെടുക്കും അതായത് ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ മേഖലയിലാണെന്ന് ഞാൻ അനുമാനിച്ചു ഞാൻ VDS എന്നത് വളരെ വലിയ സംഖ്യയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ VGS ന്റെ മൂല്യം പരിഗണിക്കാതെ തന്നെ ഇത് സംഭവിക്കും ഇത് സംതൃപ്തമാകും കൂടാതെ കറന്റ് VDS ൽ നിന്ന് സ്വതന്ത്രമായിരിക്കും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഇതിനെ സാച്ചുറേഷൻ മേഖല എന്നും വിളിക്കുന്നു അതിനാൽ വ്യക്തമായി ഒരു വോൾട്ടിന് അത് പൂജ്യമായിരിക്കും VGS രണ്ട് വോൾട്ടിന് തുല്യമാണ് പരാന്തീസിസിനുള്ളിലെ ഈ പദം ഒരു വോൾട്ടായിരിക്കും ഇത് ഒരു വോൾട്ട് സ്ക്വയർ ആയിരിക്കും അത് കറന്റ് ഘടകം K n കൊണ്ട് ഗുണിച്ച് രണ്ടായി ഹരിക്കും അതിനാൽ കറന്റ് 50 മൈക്രോ ആമ്പിയർ ആയിരിക്കും അതിനാൽ ഈ ID മൈക്രോ ആമ്പിയറിലാണെന്ന് പറയാം നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ പരിശോധിക്കാനാകും അതുപോലെ VGS മൂന്ന് വോൾട്ട് ആണെങ്കിൽ ഈ സംഖ്യ VGS മൈനസ് VT ഓൾ സ്ക്വയർ 4 വോൾട്ട് സ്ക്വയർ ആകും അതിനാൽ നമുക്ക് 200 മൈക്രോ ആമ്പിയർ ലഭിക്കും അതുപോലെ VGS 4 വോൾട്ട് ആണെങ്കിൽ ഈ VGS മൈനസ് VT ഹോൾ സ്ക്വയർ 9 വോൾട്ട് സ്ക്വയർ ആയിരിക്കും ഈ പ്രോഡക്റ്റ് 450 മൈക്രോ ആമ്പിയർ ആയിരിക്കും അത് തുടർന്ന് കൊണ്ടിരിക്കും ഇവിടെയുള്ള ഓരോ വോൾട്ട് ചുവടുവെപ്പിനും കറന്റിലെ ഘട്ടം കൂടുതൽ വലുതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഇവിടെയുള്ള ഈ സ്ക്വയർ പദത്തിന്റെ അനന്തരഫലമാണ് അതിനാൽ ഇത് ഇങ്ങനെയായിരിക്കും ഇവിടെ കാണിച്ചിരിക്കുന്ന നിർണായകമായ അനുമാനം ഇവിടെ കാണിച്ചിരിക്കുന്ന VGS യുടെ എല്ലാ മൂല്യങ്ങൾക്കും എനിക്ക് സാച്ചുറേഷൻ ഉണ്ടെന്ന് VGS മൈനസ് VT നേക്കാൾ VDS വലുതാണ് എന്നാണ് അനുമാനിക്കുന്നത് അതിനാൽ ID ഈ പ്രദേശത്തെ VGS നെ ശക്തമായി ആശ്രയിച്ചിരിക്കുന്നു മാത്രമല്ല ഈ സ്ലോപ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഇപ്പോൾ ID വേഴ്സസ് VDS എങ്ങനെയിരിക്കും ഈ VDS ഉം വോൾട്ടിൽ ആണെന്ന് പറയാം ഈ ID മൈക്രോ ആമ്പിയറിലാണ് കട്ട് ഓഫ് ചെയ്ത ഭാഗം വരയ്ക്കുന്നത് ആദ്യം എളുപ്പമാണ് അതായത് ഈ പ്ലോട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ ഇത് പലതവണ ആവർത്തിച്ചു ഇത് VGS നെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ VGS പാരാമീറ്ററായി മാറ്റുകയും ഇത് പ്ലോട്ട് ചെയ്യുകയും ചെയ്യുക VT നേക്കാൾ കുറവുള്ള VGS ന് കറന്റ് പൂജ്യമായിരിക്കും ഇത്കട്ട് ഓഫാണ് എനിക്ക് ഈ പ്ലോട്ടുകൾ ആരംഭിക്കണം VGS VDS എന്നിവ പോസിറ്റീവ് ആയി കണക്കാക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിനാൽ ഞാൻ ഈ പ്ലോട്ടുകൾ പൂജ്യത്തിൽ നിന്ന് ആരംഭിച്ച് വലത്തേക്ക് മാത്രം പോകണം അടുത്തതായി നമുക്ക് VT യെക്കാൾ VGS എടുക്കാം നമുക്ക് രണ്ട് വോൾട്ടുകളുടെ VGS എടുക്കാം VT എന്നത് ഒരു വോൾട്ട് ആണ് VGS രണ്ട് വോൾട്ടും VT ഒരു വോൾട്ടും ആയിരിക്കുമ്പോൾ സാച്ചുറേഷൻ റീജിയൻ കറന്റ് പ്ലോട്ട് ചെയ്യുന്നത് എളുപ്പമാണ് ഈ പദപ്രയോഗം 50 മൈക്രോ ആമ്പിയറുകളായി കണക്കാക്കുമെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ VGS മൈനസ് VT എന്നതിനേക്കാൾ VDS ന് മാത്രമേ ഇത് സാധുതയുള്ളൂ ഇപ്പോൾ VGS മൈനസ് VT ആണ് അത് ഒരു വോൾട്ട് ആയിരിക്കും അതിനാൽ ഇത് ഒരു വോൾട്ടിന് തുല്യമായ VDS ന്റെ വക്രമായിരിക്കും കറന്റ് 50 മൈക്രോ ആമ്പിയർ ആയിരിക്കും അത് തന്നെയാണ് ഇവിടെയും വിലയിരുത്തുന്നത് ഞാൻ x ആക്സിസ് കോലീനിയർ ആക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കുക അതിനാൽ ഇത് അമ്പത് മൈക്രോ ആമ്പിയറുകളാണ് ഞങ്ങൾ അവിടെ കാണുന്നത് അതേ കാര്യമാണ് എന്നാൽ ഇത് VDS ന് ഒന്നിൽ കൂടുതൽ വോൾട്ടുകൾക്ക് മാത്രമേ സാധുതയുള്ളൂ അതിനാൽ ഇത് VGS മൈനസ് VT യുടെ മൂല്യമാണ് അടുത്തതായി നമുക്ക് VGS സമം മൂന്ന് വോൾട്ട് എടുക്കാം VGS മൂന്ന് വോൾട്ടിന് തുല്യമാണെങ്കിൽ ഈ പദപ്രയോഗം ഇരുന്നൂറ് മൈക്രോ ആമ്പിയറുകളായി കണക്കാക്കുന്നു ഞങ്ങൾ ഇവിടെ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ കാണുന്നു എന്നാൽ VDS എന്നത് VGS മൈനസ് VT അല്ലെങ്കിൽ VDS രണ്ട് വോൾട്ടിനേക്കാൾ വലുതാകുമ്പോൾ മാത്രമേ അത് സാധുവാകൂ അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ VGS 3 വോൾട്ടിന് തുല്യമാണ് VDS എന്നത് VGS മൈനസ് VT യേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് ഈ സ്ഥിരമായ കറന്റ് ഉണ്ടാകും അതായത് 2 വോൾട്ട് VGS നുള്ള എക്സസൈസ് ആവർത്തിക്കുകയാണെങ്കിൽ ഇത് നാല് വോൾട്ടിന് തുല്യമാണ് ഈ പദപ്രയോഗം ഇവിടെ പോലെ തന്നെ 450 മൈക്രോ ആമ്പിയറുകളായി വിലയിരുത്തുന്നു അതിനാൽ VGS നുള്ള പോയിന്റുകൾ നാല് വോൾട്ടിന് തുല്യമാണ് അത് അവിടെ 450 മൈക്രോ ആമ്പിയർ ആയിരിക്കും എന്നാൽ തീർച്ചയായും ഇത് VGS മൈനസ് VT അല്ലെങ്കിൽ VDS 3 വോൾട്ടിൽ കൂടുതലുള്ള VDS ന് മാത്രമേ സാധുതയുള്ളൂ അതിനാൽ ഒരു വശത്ത് ഞാൻ ഈ കാര്യങ്ങൾ കൈകൊണ്ട് വരച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും കുറച്ച് സ്കെയിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു ഇത് വളരെ ഉപയോഗപ്രദമായ കാര്യമാണ് ഇപ്പോൾ സ്കെച്ചിംഗ് ഇക്കാലത്ത് പലപ്പോഴും പരിശീലിക്കുന്നില്ല പക്ഷേ കൃത്യമായ കണക്കുകൂട്ടലുകൾക്ക് വേണ്ടിയല്ല ഞാൻ ഇത് സൂചിപ്പിച്ചത് നോൺ ലീനിയർ സിസ്റ്റങ്ങളുടെ ഗ്രാഫിക്കൽ വിശകലനത്തെക്കുറിച്ചാണ് പക്ഷേ അവബോധ സ്കെച്ചിംഗ് ലഭിക്കുന്നതിന് അത് വളരെ സഹായകരമാണ് നിങ്ങൾ സ്കെയിൽ ചെയ്യാൻ ഏകദേശം എന്തെങ്കിലും ഉണ്ടാക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിക്കും തുടർന്ന് നിങ്ങൾ കൃത്യമായി കണക്കുകൂട്ടാൻ സമവാക്യങ്ങൾ ഉപയോഗിക്കുക അതിനാൽ കർവുകൾ നന്നായി വരയ്ക്കാൻ പഠിക്കുന്നത് എഞ്ചിനീയറിംഗിൽ വളരെ ഉപയോഗപ്രദമായ കഴിവാണ് അതിനാൽ ഇപ്പോൾ ID വേഴ്സസ് VDS കർവിന്റെ ഭാഗങ്ങൾ വരച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് ചോദ്യം വ്യക്തമായും ഇവിടെ ഈ ഭാഗം ഞാൻ ഒരുതരം അതിർത്തി വരയ്ക്കട്ടെ വലതുവശത്തുള്ള ഈ ഭാഗം സാച്ചുറേഷൻ മേഖലയാണ് ഇവിടെ VDS എന്നത് VGS മൈനസ് VT എന്നതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ അതിന് മുമ്പ് എന്താണ് സംഭവിക്കുന്നത് അതിനുമുമ്പ് ഞാൻ ഈ മറ്റ് സമവാക്യങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ വ്യക്തമായി കറന്റ് VDS നെ ആശ്രയിച്ചിരിക്കുന്നു വാസ്തവത്തിൽ പൂജ്യത്തിന് തുല്യമായ VDS ന് കറന്റ് പൂജ്യമായിരിക്കും ശരിയാണ് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്ത് VGS ഉണ്ടെങ്കിലും VGS എന്നത് VT യെക്കാൾ കൂടുതലായിരിക്കാം എന്നാൽ VDS പൂജ്യമാണെങ്കിൽ ഈ മുഴുവൻ സംഖ്യയും പൂജ്യമാണ് കറന്റ് പൂജ്യമായിരിക്കും അത് ഓർമ്മിക്കേണ്ട ഉപയോഗപ്രദമായ കാര്യമാണ് ഡ്രെയിനിനും സ്രോതസ്സിനുമിടയിൽ കറന്റ് ഒഴുകുന്നു ഒരു റെസിസ്റ്റർ പോലെ ഡ്രെയിനിനും സോഴ്സിനും ഇടയിലുള്ള വോൾട്ടേജ് വ്യത്യാസം പൂജ്യമാണെങ്കിൽ കറന്റ് പൂജ്യമായിരിക്കും തീർച്ചയായും റെസിസ്റ്റർ അതിലുടനീളം വോൾട്ടേജിന്റെ വ്യത്യസ്ത മൂല്യങ്ങൾക്ക് രേഖീയമാണ് കറന്റ് ആനുപാതികമായിരിക്കും ഈ സാഹചര്യത്തിൽ കറന്റ് ആനുപാതികമല്ല പക്ഷേ ഡ്രെയിനിലും സോഴ്സിലുമുള്ള പൂജ്യം വോൾട്ടേജിന് കറന്റ് പൂജ്യമായിരിക്കും അതിനാൽ ഡ്രെയിൻ സോഴ്സ് വ്യത്യാസം ഒരുതരം ലെവൽ വ്യത്യാസമായി നിങ്ങൾ കരുതുന്നുവെങ്കിൽ വ്യത്യാസം വളരെ ചെറുതാണെങ്കിൽ കറന്റ് വളരെ ചെറുതായിരിക്കും വ്യത്യാസം പൂജ്യമാണെങ്കിൽ കറന്റ് പൂജ്യമായിരിക്കും ആംപ്ലിഫയറുകൾക്ക് അഭികാമ്യമായ മേഖലയായ സാച്ചുറേഷൻ മേഖലയിൽ പ്രവർത്തിക്കാൻ ഡ്രെയിനിനും സോഴ്സിനും ഇടയിൽ മതിയായ വേർതിരിവ് ഉണ്ടായിരിക്കണം അതിനാൽ ഓർമ്മിക്കേണ്ട നല്ല അവബോധജന്യമായ കാര്യമാണ് ചിലപ്പോൾ ബീജഗണിതം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നെഗറ്റീവ് വോൾട്ടേജുകളും മറ്റ് തരത്തിലുള്ള ട്രാൻസിസ്റ്ററുകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാകാം എന്നാൽ എല്ലാത്തരം ട്രാൻസിസ്റ്ററിനും സാച്ചുറേഷൻ മേഖലയിൽ ട്രാൻസിസ്റ്റർ ഉണ്ടാകുന്നതിന് വേണ്ടത്ര വലിയ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് ഉണ്ടായിരിക്കണം ഇപ്പോൾ ഈ കർവ് എങ്ങനെയുള്ളതാണ് അത് ഒരു പരാബോളയാണെന്ന് പറയുന്ന VDS ന് രണ്ടാം ഓർഡർ ആശ്രിതത്വം ഉണ്ടെന്ന് നിങ്ങൾ വ്യക്തമായി കാണുന്നു കൂടാതെ പരാബോള അത് ഒരു ഇൻവെർട്ടഡ് പരാബോളയാണ് കാരണം സ്ക്വയർ ചെയ്ത പദത്തിന് നെഗറ്റീവ് ചിഹ്നമുണ്ട് ഇത് വിലയിരുത്താൻ ഞാൻ നിങ്ങളോട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു ഈ പരാബോളയെ വിലയിരുത്തുക ഇത് അത്തരത്തിലുള്ളതാണെന്ന് നിങ്ങൾ കണ്ടെത്തും പരാബോളയുടെ പീക്ക് എവിടെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി കണ്ടെത്താനാകും ഇൻവെർട്ടഡ് പരാബോളയുടെ മുകൾഭാഗം എവിടെയാണെന്ന് ഇതിന് താഴെയുള്ള കർവിന്റെ ഭാഗം ഇൻവെർട്ടഡ് പരാബോളയാണെന്നും ഇൻവെർട്ടഡ് പരാബോളയുടെ പീക്ക് ഇവിടെയാണെന്നുമായി ഇത് മാറുന്നു ആ സമയത്ത് കറന്റ് സാച്ചുറേഷൻ കറന്റിന് തുല്യമാണ് അത് അതിശയിക്കാനില്ല നിങ്ങൾ ഇവിടെ VDS സമം VGS മൈനസ് VT എന്നതിന് പകരം വയ്ക്കുകയാണെങ്കിൽ ഈ പദപ്രയോഗവും ഈ പദപ്രയോഗവും ഒന്നുതന്നെയാകും അതിനാൽ വൈദ്യുതധാര പൂജ്യത്തിൽ നിന്ന് ആരംഭിക്കുന്നു തുടർന്ന് അത് VDS നൊപ്പം ഏതെങ്കിലും വിധത്തിൽ വർദ്ധിക്കുകയും VDS VGS മൈനസ് VT എന്ന പോയിന്റ് വരെ വർദ്ധിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഈ പരാബോള തുടരുന്നില്ല ഈ പദപ്രയോഗം മേലിൽ സാധുതയുള്ളതല്ല തുടർന്ന് കറന്റ് സ്ഥിരമായിരിക്കും അതുപോലെ മറ്റ് മൂല്യങ്ങൾക്ക് ചില ഇൻവെർട്ടഡ് പരാബോള ഉണ്ടാകും സ്ലോപ്പ് പൂജ്യമായി മാറുന്നു തുടർന്ന് അത് കോൺസ്റ്റന്റായി നിലകൊള്ളുന്നു അവയ്ക്കെല്ലാം സമാനമായതാണ് സംഭവിക്കുന്നത് അതിന്റെ ഇടതുവശത്തുള്ള പ്രദേശം ഇതാണ് ട്രയോഡ് മേഖല ട്രയോഡും സാച്ചുറേഷനും തമ്മിലുള്ള അതിർത്തി VDS VDS ന്റെ നിശ്ചിത മൂല്യത്തിലല്ലാത്തത് VGS നെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു എന്നത് ശ്രദ്ധിക്കുക ഇവിടെയുള്ള ഈ കർവ് ഡാഷ് ഗ്രീൻ ലൈനിൽ തന്നെ ഒരു പരാബോളയാണ് ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പരിശോധിക്കാനാകും വാസ്തവത്തിൽ ഇത് അതേ പരാബോളയാണ് പക്ഷേ പൂജ്യം വോൾട്ടിലേക്ക് മാറ്റി അതിനാൽ സ്വഭാവസവിശേഷതകൾ എങ്ങനെ വരയ്ക്കാമെന്നും MOS ട്രാൻസിസ്റ്റർ സവിശേഷതകൾ എങ്ങനെയാണെന്നും ഇത് ആദ്യം നിങ്ങൾക്ക് ഒരു അനുഭവം നൽകും സാച്ചുറേഷൻ മേഖലയിൽ വ്യക്തമായും നിങ്ങൾ VDS യുമായി യാതൊരു വ്യത്യാസവും കാണുന്നില്ല അതിനാൽ ഞങ്ങൾ ആഗ്രഹിച്ചത് ഇതാണ് ആംപ്ലിഫയർ ഉയർന്ന ഗെയിൻ നൽകുന്നതിന് ഈ സാച്ചുറേഷൻ മേഖലയിൽ നിങ്ങൾ അത് പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് ഈ പ്രദേശത്തിനും അതിന്റെ ഉപയോഗങ്ങളുണ്ട് പിന്നീടുള്ള ചില പാഠങ്ങളിൽ ഞങ്ങൾ അത് നോക്കും ഇവിടെയുള്ള ഈ കർവ് ID വേഴ്സസ് VGS ഞാൻ സാച്ചുറേഷനായി മാത്രം വരച്ചിട്ടുണ്ട് ഇത് വോൾട്ടേജിനൊപ്പം വൈദ്യുതധാരയുടെ മൂർച്ചയുള്ള വർദ്ധനവ് കാണിക്കുന്നു വോൾട്ടേജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അത് കൂടുതൽ മൂർച്ചയുള്ളതും മൂർച്ചയുള്ളതുമായി മാറുന്നു ഇത് ID വേഴ്സസ് VDS കർവിൽ നിന്ന് വ്യക്തമാണ് കാരണം VGS 2 മുതൽ 3 വോൾട്ട് വരെ കുതിക്കുമ്പോൾ വൈദ്യുതധാരയിൽ കുറച്ച് വർദ്ധനവ് സംഭവിക്കുന്നു 3 മുതൽ 4 വോൾട്ട് വരെ വൈദ്യുതധാരയിൽ വളരെ വലിയ വർദ്ധനവ് ഉണ്ട് കൂടാതെ 4 മുതൽ 5 വരെ ഇതിലും വലിയ വർദ്ധനവും മറ്റും ആയിരിക്കും അതിനാൽ VGS ൽ തുല്യമായ ഘട്ടങ്ങൾക്കായി നിങ്ങൾ ഒരു MOS ട്രാൻസിസ്റ്റർ സ്വഭാവസവിശേഷതകൾ വരച്ചാൽ നിലവിലെ ഘട്ടങ്ങൾ അസമമായിരിക്കുമെന്ന് നിങ്ങൾ കാണും അവ വലുതും വലുതുമായി മാറും അതിനാൽ ട്രാൻസിസ്റ്ററിന്റെ I V സവിശേഷതകൾ ഇങ്ങനെയാണ് ആംപ്ലിഫയറുകൾക്കായി പൊതുവെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഈ ട്രയോഡ് മേഖലയുടെ വലതുവശത്ത് സാച്ചുറേഷൻ റീജിയൻ ബൌണ്ടറിയിൽ